ആശംസകൾ മെറിലിന്റെ പഠനത്തിന്റെ ആദ്യ തത്വങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂൾ 3 യൂണിറ്റ് 8 ലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റുകളിൽ മെറിലിന്റെ തത്വങ്ങൾ നമ്മൾ പരാമർശിച്ചു എന്നാൽ ഈ യൂണിറ്റിൽ നമ്മൾ മെറിലിന്റെ തത്വങ്ങൾ കൂടുതൽ വിശദമായി പഠിക്കാൻ ശ്രമിക്കും മുമ്പത്തെ യൂണിറ്റിൽ ക്ലാസ് റൂമിൽ വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു ഈ യൂണിറ്റിൽ മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്ത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കും ലോകമെമ്പാടും ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ സമീപനങ്ങൾ ഇൻസ്ട്രക്ഷണൽ രീതികൾ ഇൻസ്ട്രക്ഷണൽ വിദ്യകൾ എന്നിവ നമുക്കുണ്ടെന്ന് അറിയാം വിദ്യാഭ്യാസ സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള ഗവേഷണം ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പന സിദ്ധാന്തം എന്നിവ വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ മാതൃകകൾ നിർമ്മിക്കാൻ സഹായകമായി ഈ മോഡലുകൾക്ക് പൊതുവായുള്ള എന്തെങ്കിലും ഉണ്ടോ അതായിരുന്നു മെറിലിന്റെ കാഴ്ചപ്പാട് ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പനയ്ക്കായി പരസ്പരബന്ധിതമായ ഒരു പിടി തത്വങ്ങളുടെ ഒരു കൂട്ടം സ്വാംശീകരിക്കുക ഈ തത്ത്വങ്ങൾ ഏതെങ്കിലും നിർദ്ദിഷ്ട ഇൻസ്ട്രക്ഷണൽ മാതൃകയിൽ നിന്നോ ഇൻസ്ട്രക്ഷണൽ രീതിയിൽ നിന്നോ സ്വതന്ത്രമായിരിക്കണം ഇതിനർത്ഥം ഈ തത്ത്വങ്ങൾ വ്യക്തമായും പരോക്ഷമായും ഈ പേരിലോ മറ്റേതെങ്കിലും പേരിലോ നിർദ്ദേശിക്കുന്ന മിക്ക മാതൃകകളിലും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ രീതികളിലും പിന്തുടരേണ്ടതാണ് എന്നാൽ വിജയകരമായ ഇൻസ്ട്രക്ഷണൽ മാതൃകകളിലോ ഇൻസ്ട്രക്ഷണൽ രീതികളിലോ പൊതുവായി കാണപ്പെടുന്ന അത്തരം തത്ത്വങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യാൻ മെറിൽ ആഗ്രഹിച്ചു ഈ തത്ത്വങ്ങൾ തങ്ങളുടേതായ ഒരു മാതൃകയോ ഇൻസ്ട്രക്ഷണൽ രീതിയോ അല്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഈ തത്വങ്ങൾ വ്യത്യസ്ത മോഡലുകളും വ്യത്യസ്ത ഇൻസ്ട്രക്ഷണൽ രീതികളും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയും യഥാർത്ഥ പദാവലി അത്തരം ചില മോഡലുകളിൽ വ്യത്യാസപ്പെട്ടിരിക്കാം തുടർന്നുള്ള യൂണിറ്റുകളിൽ നമ്മൾ കാണും എന്നാൽ അന്തർലീനമായ തത്ത്വം അതിന്റെ ചൈതന്യം ഒന്നുതന്നെയാണ് കൂടാതെ മെറിൽ ഈ തത്ത്വങ്ങൾ ഒരു നിർദേശത്തിന്റെ സ്വഭാവത്തിൽ ആയിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു അതായത് അവ ഡിസൈൻ അധിഷ്ഠിതമാണ് എന്താണെന്ന് അവർ വിവരിക്കുന്നില്ല പക്ഷേ അവ നിർദ്ദേശങ്ങളാണ് കൂടാതെ ഇൻസ്ട്രക്ഷണൽ രീതി അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മാതൃക രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് ഇവ പരസ്പരബന്ധിതമായ നിർദേശ തത്വങ്ങളാണ് പ്രധാനപ്പെട്ടതായി അഞ്ച് തത്വങ്ങളാണ് മെറിൽ അവതരിപ്പിച്ചത് അദ്ദേഹം ഏതൊരു ഇൻസ്ട്രക്ഷണൽ മാതൃകയുടെയും ഇൻസ്ട്രക്ഷണൽ രീതിയുടെയും രൂപകൽപ്പനയിൽ അവ വളരെ അടിസ്ഥാനമായതിനാൽ അവയെ ആദ്യത്തെ പ്രധാന തത്ത്വങ്ങളായി അദ്ദേഹം വിളിക്കുന്നു പഠനത്തിന്റെ ഈ അഞ്ച് ആദ്യ തത്ത്വങ്ങൾ ഇവയാണ് വിവിധ പ്രോഗ്രാമുകളുംഅതിന്റെ നടത്തിപ്പിലും ഇതിലെ എല്ലാ തത്വങ്ങളും അല്ലെങ്കിൽ അതിൽ ചിലത് ഉപയോഗിച്ച് വരുന്നതായി നമുക്ക് കാണാം മെറിലിന്റെ പ്രബന്ധം ഒരുപ്രത്യേക മോഡൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ രീതിയുടെ ഫലപ്രാപ്തി കാര്യക്ഷമത ഇടപഴകൽ എന്നിവ ഈ തത്ത്വങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം ഈ തത്ത്വങ്ങൾ കൂടുതൽ വിപുലമായി നടപ്പിലാക്കുന്നത് ഇൻസ്ട്രക്ഷനെ കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ആകർഷകവുമാക്കുന്നു അഞ്ച് തത്ത്വങ്ങളും നടപ്പിലാക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ വളരെ ഫലപ്രദവും കാര്യക്ഷമവും ആകർഷകവുമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് മെറിലിന്റെ പ്രബന്ധം തീർച്ചയായും സാഹചര്യപരമായ തത്വങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നല്ല ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ ചില യൂണിറ്റുകളിൽ കണ്ടതാണ്അവ ഫലപ്രാപ്തിയോ കാര്യക്ഷമതയോ ഇടപഴകലോ ചെറുതായി മോഡുലേറ്റ് ചെയ്തേക്കാം എന്നാൽ വിശാലമായി ഇവ സാർവത്രിക തത്വങ്ങളാണ് ഈ അഞ്ച് തത്ത്വങ്ങൾ ഇൻസ്ട്രക്ഷണൽ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷന്റെ മൂന്ന് ഇ E കൾ ശക്തിപ്പെടുത്തും അതാണ് മെറിലിന്റെ തീസിസ് ഇതിനെ പിന്താങ്ങുന്നതിന് നമുക്ക് ധാരാളം അനുഭവപരമായ തെളിവുകൾ ഇല്ല എന്നാൽ ഈ തത്ത്വങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് അധ്യാപകരായ നാമെല്ലാവരും മനസ്സിലാക്കും അവക്ക് സാർവത്രിക സ്വഭാവമുള്ളതായി തോന്നുന്നു ഇൻസ്ട്രക്ഷന്റെ ആദ്യത്തെ ഈ അഞ്ച് തത്ത്വങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ നേരിട്ടുള്ള അനുപാതത്തിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷണൽ രീതിയിൽ നിന്ന് പഠിക്കുന്നത് സുഗമമാകും ഈ യൂണിറ്റിൽ നമ്മൾ എന്തുചെയ്യും മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്ത്വങ്ങൾ അവതരിപ്പിക്കും തുടർന്ന് അടുത്ത യൂണിറ്റിൽ ഈ അഞ്ച് തത്വങ്ങളും നടപ്പിലാക്കുന്ന ഒരു മാതൃക ചർച്ച ചെയ്യുക നമ്മൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ വൈവിധ്യമാർന്ന മോഡലുകളിലൂടെ ഈ തത്വങ്ങൾ നടപ്പിലാക്കാൻ കഴിയും തുടർന്നുള്ള യൂണിറ്റുകളിൽ മറ്റ് ഇൻസ്ട്രക്ഷണൽ സമീപനങ്ങളിലേക്ക് നോക്കുമ്പോൾ മെറിലിന്റെ അഞ്ച് പഠന തത്വങ്ങളുമായി അവ എവിടെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് കാണാൻ നമ്മൾ ശ്രമിക്കും മെറിൽ തിരിച്ചറിഞ്ഞതും പ്രസ്താവിച്ചതുമായ പഠനത്തിന്റെ ആദ്യത്തെ അഞ്ച് തത്വങ്ങൾ ഇവയാണ് ടാസ്ക് കേന്ദ്രീകൃത തത്വം സജീവമാക്കൽ തത്വംഡെമോൺസ്ട്രേഷൻ തത്വം ആപ്ലിക്കേഷൻ തത്വം സംയോജന തത്വം ആദ്യത്തേത് ടാസ്ക് കേന്ദ്രീകൃത തത്വമാണ് പഠിതാക്കൾ ഒരു ടാസ്ക് കേന്ദ്രീകൃത ഇൻസ്ട്രക്ഷണൽ തന്ത്രത്തിൽ ഏർപ്പെടുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു മെറിൽ ടാസ്ക് എന്ന് പറയുമ്പോൾ അത് ക്ലാസ്സിന്റെ അവസാനം നമ്മൾ നൽകുന്ന ഒരു അഭ്യാസം അല്ലെങ്കിൽ പ്രോബ്ലം പോലെയല്ല വിദ്യാർത്ഥികൾ മുഴുവൻ ജോലികളിലും ഏർപ്പെടണമെന്ന് മെറിൽ ശരിക്കും ആഗ്രഹിക്കുന്നു ഈ ജോലിയിൽ ശരിക്കും പരിശീലനം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ടിവരുന്ന സഹചര്യങ്ങളുമായി സാമ്യമുള്ള ഒരു ടാസ്ക് ആണ് ഇത് മുഴുവൻ ടാസ്ക്കുകളുടെയും ലളിതവും സങ്കീർണ്ണവുമായ പുരോഗതി പഠിതാക്കൾ ഏറ്റെടുക്കുമ്പോൾ ടാസ്ക് കേന്ദ്രീകൃത ഇൻസ്ട്രക്ഷണൽ തന്ത്രത്തിൽ നിന്ന് പഠനം മെച്ചപ്പെടുത്തുന്നു വളരെ സങ്കീർണ്ണമായ ജോലികൾ പഠിതാക്കൾക്ക് തുടക്കത്തിൽ തന്നെ അത്ര സുഖകരമായിരിക്കില്ല എന്നത് വളരെ വ്യക്തമാണ് അതിനാൽ നമുക്ക് വളരെ ലളിതമായ ഒരു ടാസ്ക് ഉപയോഗിച്ച് ആരംഭിക്കാൻ കഴിയും പക്ഷേ ടാസ്ക് ഒരു മുഴുവൻ ടാസ്ക് ആയിരിക്കണം അതാണ് മെറിലിന്റെ തീസിസ് ക്രമേണ നമുക്ക് പഠിതാക്കൾക്ക് കൊടുക്കുന്ന മുഴുവൻ ജോലികളുടെയും സങ്കീർണ്ണത വർദ്ധിപ്പിക്കാനും തുടക്കത്തിൽ ഇൻസ്ട്രക്ടറുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ സൂചനകൾ നിർദ്ദേശങ്ങൾ മുതലായവയിലൂടെ ഇൻസ്ട്രക്റ്റർ നൽകുന്ന പിന്തുണ വളരെ വിപുലമാക്കാനും കഴിയും കൂടുതൽ സങ്കീർണ്ണമായ മുഴുവൻ ടാസ്ക്കുകളിലൂടെയും പഠിതാക്കൾ പുരോഗമിക്കുമ്പോൾ ക്രമേണ ഇൻസ്ട്രക്ടർ അവളുടെ പിന്തുണ പിൻവലിക്കണം അതുവഴി പഠിതാവിന് ആ ടാസ്ക്കുകൾ സ്വയം പരിഹരിക്കാനും ആ ടാസ്ക്കുകളിൽ കൂടുതൽ അല്ലെങ്കിൽ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയണം നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം പക്ഷേ ആധികാരിക യഥാർത്ഥലോക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടാസ്ക്കുകൾ ആണ് നൽകേണ്ടത് ആധികാരികമായ യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് വ്യത്യസ്തമാണ് പൊതുവേ ഈ സമീപനം വിഷയം കേന്ദ്രീകരിച്ചുള്ള ഇൻസ്ട്രക്ഷണൽ തന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്വിഷയം കേന്ദ്രീകരിച്ചുള്ള ഇൻസ്ട്രക്ഷണൽ തന്ത്രങ്ങൾ ടാസ്ക് കേന്ദ്രീകൃത തന്ത്രത്തേക്കാൾ കൂടുതൽ ജനപ്രിയമാണ് ഒരു വിഷയം കേന്ദ്രീകരിച്ചുള്ള ഇൻസ്ട്രക്ഷണൽ തന്ത്രത്തിൽ സാധാരണ സംഭവിക്കുന്നത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രസക്തമായ ഘടകങ്ങളും കഴിവുകളും ആദ്യം തന്നെ അവതരിപ്പിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് ഇത് ഒരു തരം താഴെ നിന്ന് മുകളിലേക്കുള്ള ബോട്ടം അപ്പ് സമീപനമാണ് അത് ഇനി പറയുന്ന പോലുള്ള ഒരു മുന്നറിയിപ്പിനൊപ്പം ആയിരിക്കാം "നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം തുടക്കത്തിൽ മനസ്സിലായില്ലായിരിക്കാം പക്ഷേ ഇത് തുടർന്നുള്ള പാഠത്തിൽ കാണും" എല്ലാ അടിസ്ഥാന കഴിവുകളും നമ്മൾ ആദ്യം അവതരിപ്പിക്കുന്നു ഈ കഴിവുകളെ അടിസ്ഥാനമാക്കി ഒരു ടാസ്ക് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ടാസ്ക് കേന്ദ്രീകരിച്ചുള്ള ഇൻസ്ട്രക്ഷണൽ തന്ത്രത്തിൽ ഒരു ടാസ്ക് മുൻകൂറായി ആരംഭിക്കുന്നു നമ്മൾ ടാസ്കിൽ നിന്നാണ് ആരംഭിക്കുന്നത് സങ്കീർണ്ണത ഒരുപക്ഷേ കുറവായിരിക്കാം പക്ഷേ ടാസ്ക്കിന്റെ സ്വഭാവം പഠിതാക്കൾ പ്രൊഫഷണലാകുമ്പോൾ പരിഹരിക്കേണ്ട ടാസ്ക്കുകളുടെ സ്വഭാവത്തിന് സമാനമാണ് അവരുടെ പിൽക്കാല തൊഴിലിൽ അവർ അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള ചുമതല അത് മുഴുവൻ ജോലികളും അവതരിപ്പിക്കുന്നതിനുള്ള മാതൃകയായി മാറുന്നു ടാസ്കിന്റെ ഓരോ തലത്തിലും ഇൻസ്ട്രക്ഷണൽ സൈക്കിൾ ആവർത്തിക്കുകയും പിന്നീട് നമ്മൾ കൂടുതൽ സങ്കീർണ്ണമായ ചുമതലയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ലളിതമായ ചുരുങ്ങിയ ടാസ്ക് കേന്ദ്രീകൃത ഇൻസ്ട്രക്ഷണൽ തന്ത്രം ഒരൊറ്റ ചുമതലയാണ് സാഹചര്യപരമായ പരിമിതികളില്ലെങ്കിൽ ഒരൊറ്റ ടാസ്ക്കിനേക്കാൾ സങ്കീർണ്ണമായ ജോലികളിലൂടെ പുരോഗതി കൈവരിക്കുന്നതാണ് നല്ലതെന്ന് മെറിൽ വളരെ ശക്തമായി വാദിക്കുന്നു അദ്ദേഹം നിർദ്ദേശിക്കുന്നു തുടക്കത്തിൽ ഇൻസ്ട്രക്ടറുടെ പിന്തുണ വിപുലമായിരിക്കാമെന്ന് പക്ഷേ ക്രമേണ ഇൻസ്ട്രക്ടർ അവളുടെ പിന്തുണ പിൻവലിക്കണം അതുവഴി വിദ്യാർത്ഥികൾക്ക് പഠിതാക്കൾക്ക് സ്വതന്ത്രമായി പ്രശ്നവുമായി ഇടപഴകാൻ കഴിയും സങ്കീർണ്ണത താഴ്ന്ന തലത്തിൽ നിന്ന് ഉയർന്നതിലേക്ക് വർദ്ധിക്കുമ്പോൾ ഇൻസ്ട്രക്ടറുടെ പിന്തുണ യഥാർത്ഥത്തിൽ കുറഞ്ഞു വരുന്നു അതിലൂടെ പഠിതാക്കൾക്ക് കൂടുതൽ സങ്കീർണ്ണമായ ഒരു പ്രശ്നത്തെ എളുപ്പത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയും സാഹചര്യപരമായ പരിമിതികളുണ്ടെങ്കിൽ ചുരുങ്ങിയ ടാസ്ക് കേന്ദ്രീകൃത തന്ത്രം ഒരൊറ്റ ടാസ്ക് ആകാം പക്ഷേ അത് ഒരു മുഴുവൻ ജോലിയായിരിക്കണം ഇത് പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി വിദ്യാർത്ഥികൾ നടത്തുന്ന തുറന്ന പര്യവേക്ഷണമാണ് തുടക്കത്തിൽ ഇൻസ്ട്രക്ടർ നൽകിയ വിഷയങ്ങളിൽ നിന്ന് അവർ പരസ്പരം പഠിക്കുന്നുകൂടാതെ പ്രശ്ന പരിഹാരവുമായി മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ സ്വയം കണ്ടെത്തുന്ന വിഷയങ്ങളിൽ നിന്നും പഠിക്കുന്നു ഇതിന് കൂടുതൽ തുറന്ന പര്യവേക്ഷണ സ്വഭാവമാണ് ഉള്ളത് വാസ്തവത്തിൽ പിന്നീടുള്ള ഒരു യൂണിറ്റിൽപ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്ട്രക്ഷണൽ സമീപനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി പഠിക്കും ടാസ്ക് കേന്ദ്രീകരിച്ചുള്ള ഇൻസ്ട്രക്ഷണൽ തന്ത്രം യഥാർത്ഥത്തിൽ നേരിട്ടുള്ള നിർദ്ദേശങ്ങളുടെ മറ്റൊരു രൂപമാണ് പക്ഷേ യഥാർത്ഥ ലോക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇൻസ്ട്രക്ടർ പ്രധാനമായും ക്ലാസിന്റെ വേഗത നിയന്ത്രിക്കുന്നു ഇത് നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഒരു രൂപമാണ് പക്ഷേ ഇത് സംഭവിക്കുന്നത് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടുത്ത തത്വം സജീവമാക്കൽആക്ടിവേഷൻ തത്വമാണ് മെറിൽ പറയുന്നത് "ഫലപ്രദവും കാര്യക്ഷമവും ആകർഷകവുമായ മിക്ക ഇൻസ്ട്രക്ഷണൽ മോഡലുകൾക്കും ഈ ഘടകമുണ്ട് " നിലവിലെ കഴിവിന് പ്രസക്തമായ മുൻ അറിവോ അനുഭവമോ തിരിച്ചുവിളിക്കാനോ വിവരിക്കാനോ പ്രദർശിപ്പിക്കാനോ നിർദ്ദേശിച്ചുകൊണ്ട് പഠിതാക്കൾ പ്രസക്തമായ വൈജ്ഞാനിക ഘടനകളെ സജീവമാക്കുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അടിസ്ഥാനപരമായി ഇതിന്റെ അർത്ഥം "അറിവ് സൃഷ്ടിപരമായ തരത്തിലുള്ള സിദ്ധാന്തമാണ്" എന്നതാണ് പഠിതാക്കൾക്ക് ഇതിനകം ഉള്ള മുൻ അറിവിലാണ് അറിവ് നിർമ്മിച്ചിരിക്കുന്നത് അത് അവരുടെ പുതിയ അറിവ് കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയായിത്തീരുന്നു കൂടാതെ പഠിതാക്കൾ പുതിയ അറിവിനെ ഇതിനകം ഉള്ളതിലേക്ക് സമന്വയിപ്പിക്കുന്നു അങ്ങനെയാണ് പഠനം മുന്നോട്ട് പോകുന്നത് അതാണ് പ്രബന്ധം പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് പുതിയ അറിവ് ആരംഭിക്കുന്നതിനുമുമ്പ് പഠിതാക്കൾ പ്രസക്തമായ മുൻ വിജ്ഞാന അടിത്തറ തിരിച്ചുവിളിക്കുന്നുവെന്ന് അല്ലെങ്കിൽ ഓർമിക്കുന്നുവെന്നു ഇൻസ്ട്രക്ടർ ഉറപ്പാക്കണം പ്രസക്തമായത്എന്ന് പറയാൻ കാരണം മുമ്പത്തെ അറിവിൽ നിന്ന് അവർ ഇതിനകം തന്നെ നിർമ്മിച്ച മാതൃക വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ അറിവ് സ്വാംശീകരിക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രസക്തമായ ചട്ടക്കൂട് വിദ്യാർത്ഥികൾ തിരിച്ചുവിളിക്കണം പഠിതാക്കൾ മുമ്പത്തെ അറിവും അനുഭവവും പരസ്പരം പങ്കിടുമ്പോൾ സജീവമാക്കുന്നതിൽ നിന്നുള്ള പഠനം മെച്ചപ്പെടുത്തുന്നു മുമ്പത്തെ അറിവ് സജീവമാക്കുന്ന പ്രക്രിയയിലൂടെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ മുമ്പത്തെ പ്രസക്തമായ വിജ്ഞാന പശ്ചാത്തലം ഓർമ്മിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിനുള്ള ഒരു നല്ല തന്ത്രമാണിത് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ സമപ്രായക്കാർക്ക് അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ മുൻ അറിവിന്റെ പശ്ചാത്തലം മാനസിക മാതൃകകൾ എന്നിവ ഓർമ്മിക്കാൻ കഴിയും അവ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചർച്ചചെയ്യാം അതിനാൽ വിദ്യാർത്ഥികൾക്ക് ഒരുതരം സഹകരണപരമായ ശ്രമത്തിൽ ഏർപ്പെടാൻ കഴിയും അതിലൂടെ അവർ മുമ്പത്തെ വിജ്ഞാന അടിത്തറയെക്കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തുന്നത് ശക്തിപ്പെടുത്തുന്നു ഈ പുതിയ അറിവ് സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഘടന പഠിതാക്കൾ ഓർമ്മിപ്പിക്കുമ്പോഴോ സ്വന്തമാക്കുമ്പോഴോ ആക്റ്റിവേഷൻ വഴിയുള്ള പഠനം വർദ്ധിക്കുന്നു അറിവ് സമന്വയിപ്പിക്കുന്ന ഒരു ഘടന ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ് ക്രമരഹിതമായി വിവരങ്ങളുടെ ഭാഗങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആഴത്തിലുള്ള പഠനത്തിന് സഹായകമാവില്ല പഠിതാക്കൾക്ക് ശരിയായ മാനസിക മാതൃക അല്ലെങ്കിൽ പുതിയ പഠനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഘടന ഉണ്ടായിരിക്കണം ശരിയായ മാനസിക മാതൃക അഭ്യസിക്കുന്നതിനോ ഓർമ്മിക്കുന്നതിനോ ഇൻസ്ട്രക്ടർ പഠിതാക്കളെ സഹായിക്കണം അതിന് വിദ്യാർത്ഥികളിൽ നിന്ന് അവർക്ക് നിലവിൽ ഉള്ളത്ആശയം എന്നിവ എക്സ്ട്രാക്റ്റു ചെയ്യാൻ ശ്രമിക്കുകഎന്നിട്ട് അതെല്ലാം പരസ്പരം ചർച്ചചെയ്യാനും ആശയങ്ങൾ അവതരിപ്പിക്കാനും തുടർന്ന് ഉചിതമായ രീതിയിലുള്ള മാനസിക ചട്ടക്കൂടിൽ നിന്ന് ആരംഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുക നേരത്തെ പഠിച്ച പ്രസക്തമായ വൈജ്ഞാനിക ഘടനകൾ തിരിച്ചുവിളിക്കാൻ പഠിതാക്കളെ സഹായിക്കുകയും അത് നിലവിലെ ചുമതലയ്ക്ക് പ്രസക്തമാണോയെന്ന് പരിശോധിക്കുകയും ഉചിതമായ മാനസിക മാതൃക നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി പഠിതാക്കളെ സഹായിക്കുകയും വേണം മുമ്പത്തെ അറിവിൽ നിന്ന് നിലവിലെ അറിവിന് പ്രസക്തവും ഉചിതവുമായ ഒരു മാതൃക ഓർമിക്കാൻ പഠിതാക്കൾക്ക് കഴിഞ്ഞേക്കില്ല അതിന് ഇൻസ്ട്രക്ടർ അവരെ നയിക്കണം സഹായിക്കണം വിദ്യാർത്ഥികളെ മാതൃക ഓർമ്മിക്കാൻ അനുവദിക്കുക അവർ ഒരു ചർച്ചയിൽ ഏർപ്പെടട്ടെ ആവശ്യമെങ്കിൽ മാനസിക മാതൃകയുടെ ചിത്രം ശരിയാക്കാൻ ഇൻസ്ട്രക്ടർമാർക്ക് അവരെ സഹായിക്കാനാകും ഉചിതമായ മാനസിക മാതൃക ഓർമ്മിക്കുമ്പോൾ പഠനം മെച്ചപ്പെടുത്തുന്നു അത്തരമൊരു ഉചിതമായ മാതൃക പഠിതാക്കളെ ഇൻസ്ട്രക്ഷന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതായത് പ്രകടനം ആപ്ലിക്കേഷൻ പ്രതിഫലനം എന്നിവയിൽ സഹായിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ചില ഇൻസ്ട്രക്ഷണൽ മോഡലുകളിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പക്ഷേ ചില അനുഭവങ്ങളിൽ നിന്ന് മെറിൽ മനസിലാക്കി ഇൻസ്ട്രക്ടർ ഈ ഘട്ടം ഒഴിവാക്കുന്നുവെന്ന് നമ്മളിൽ ചിലരും ഇത് ശ്രദ്ധിച്ചിരിക്കാം അങ്ങിനെ വരുമ്പോൾ പുതിയ അറിവ് ലഭിക്കുന്നതിന് പഠിതാക്കൾ ശരിയായി തയ്യാറാകുന്നില്ല മുമ്പത്തെ അനുഭവങ്ങൾ പങ്കിടുന്നത് സഹപാഠികൾക്ക് മറ്റൊരു അനുഭവം നൽകുന്നു മോഡൽ അവതരിപ്പിക്കുന്ന ഒരാൾ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയും അത് അവരിൽ സമാനമായ പ്രതിഫലനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് എല്ലാ പഠിതാക്കളുടെയും മനസ്സിൽ ഉചിതമായ മാനസിക മാതൃകകളോടെ തയ്യാറാകാൻ മുഴുവൻ ക്ലാസ്സിനെയും സഹായിക്കുന്നു പുതിയ ഉള്ളടക്കത്തിന്റെ ഡെലിവറി ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട തത്വമാണ് അടുത്ത പ്രധാന തത്വം ഡെമോൺസ്ട്രേഷൻ ആണ് പഠിപ്പിക്കുന്ന ഉള്ളടക്കത്തിന്റെ തരവുമായി പൊരുത്തപ്പെടുന്ന പഠിക്കേണ്ട കഴിവുകളുടെ ഒരു ഉദാഹരണം പഠിതാക്കൾ നിരീക്ഷിക്കുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു മെറിൽ മറ്റൊരു പദാവലി ഉപയോഗിക്കുന്നു ഉള്ളടക്കം എന്നാൽ അത് ഒരു വർഗ്ഗീകരണ തരം അല്ലെങ്കിൽ ഒരു നടപടിക്രമം പിന്തുടരുക അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതൊക്കെ അകാം എന്നാൽ നമ്മൾ ബ്ലൂം ടാക്സോണമി ആണ് പിന്തുടരുന്നത് അതിനാൽ ഈ തത്വം അടിസ്ഥാനപരമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും അത് ഇങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ കോഴ്സ് ഔട്ട്കംമുമായി അല്ലെങ്കിൽ ഈ പ്രത്യേക സെഷനിൽ പഠിപ്പിക്കുന്ന കഴിവുമായി പൊരുത്തപ്പെടണം ഡെമോൺസ്ട്രേഷൻ കോഴ്സ് ഫലവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം പ്രസക്തമായ സിഒയുടെ വൈജ്ഞാനിക പ്രക്രിയ സ്ഥിതിചെയ്യുന്ന നിലയെ ആശ്രയിച്ച്ഡെമോൺസ്ട്രേഷൻ അതേ വൈജ്ഞാനിക തലത്തിൽ തന്നെ സംഭവിക്കണം സിഒ വിശകലനം എന്ന തലത്തിലാണെങ്കിൽ നിർദ്ദേശം പ്രകടനം ഡെമോൺസ്ട്രേഷനും വിശകലനം എന്ന തലത്തിലായിരിക്കണം വളരെ വിശാലമായി മെറിൽ പറയാൻ ശ്രമിക്കുന്നത് പഠിക്കേണ്ട കഴിവുകളുടെ ഡെമോൺസ്ട്രേഷൻ പഠിപ്പിക്കുന്ന ഉള്ളടക്കവുമായി പൊരുത്തപ്പെടണം എന്നതാണ് ഡെമോൺസ്ട്രേഷൻ വഴിയുള്ള പഠനം സഹപാഠികളോട് ചർച്ച ചെയ്യുന്നതിലൂടെയും അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിലൂടെയും വർദ്ധിപ്പിക്കാൻ കഴിയും അവതരിപ്പിക്കുന്നവയെല്ലാം നിഷ്ക്രിയമായി സ്വാംശീകരിക്കുന്നവരായിരിക്കരുത് പഠിതാക്കൾ പക്ഷേ അവർ സജീവമായി പങ്കെടുക്കണം അവർക്ക് പരസ്പരം ചർച്ചചെയ്യാനും ആവശ്യമുള്ളിടത്ത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിയും എന്നാൽ പഠിതാക്കളും ഇൻസ്ട്രക്ടറും തമ്മിലുള്ള സജീവമായ ഇടപെടൽ പഠനത്തെ പ്രോത്സാഹിപ്പിക്കും അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ വഴിയുള്ള പഠനം സഹപാഠികളോട് ചർച്ച ചെയ്യുന്നതിലൂടെയും അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിലൂടെയുംപിയർ ചർച്ചയും പിയർ പ്രകടനവും വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു ഓർഗനൈസിംഗ് ഘടനയെ നിർദ്ദിഷ്ട സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാൻ പഠിതാക്കളെ നയിക്കുമ്പോൾ ഡെമോൺസ്ട്രേഷൻ വഴിയുള്ള പഠനം വർദ്ധിക്കുന്നു വളരെ വിശാലമായ തത്ത്വങ്ങൾ ആ തത്ത്വങ്ങളുടെ പ്രയോഗത്തിന്റെ പ്രത്യേക ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കണം ഡെമോൺസ്ട്രേഷനിൽ പൊതുതത്ത്വങ്ങളും ഈ തത്ത്വങ്ങൾ പ്രയോഗിക്കുന്ന പ്രത്യേക സംഭവങ്ങളും ഉൾപ്പെടും കൂടാതെ മുൻ അറിവും നിലവിലെ അറിവും പൊതുവായ തത്വങ്ങളുമായും നിർദ്ദിഷ്ട ഉദാഹരണങ്ങളുമായും ബന്ധിപ്പിക്കപ്പെട്ട ഒരു സംഘടനാ ഘടന പഠിതാക്കൾക്ക് ഉണ്ടായിരിക്കണം ഉള്ളടക്കത്തിന് അനുയോജ്യമായ പ്രസക്തമായ മാധ്യമങ്ങളിലൂടെ പഠിതാക്കൾ നിരീക്ഷിക്കുമ്പോൾ ഡെമോൺസ്ട്രേഷൻ വഴിയുള്ള പഠനം വർദ്ധിക്കുന്നു ഉള്ളടക്കത്തിന്റെ സ്വഭാവമനുസരിച്ച് സിഒ അനുസരിച്ച് ഒരാൾക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ സിമുലേഷനുകൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന മോഡലുകൾ ഉപയോഗിക്കേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മാധ്യമവും അത് പഠിതാക്കളിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന യോഗ്യതയുമായി പൊരുത്തപ്പെടണം അതിന്റെ അർത്ഥം മാധ്യമങ്ങൾ കോഴ്സ് ഫലവുമായി അല്ലെങ്കിൽ യോഗ്യതയുമായി പൊരുത്തപ്പെടണം എന്നാണ് ഡെമോൺസ്ട്രേഷന്റെ നിർണായക ഘടകങ്ങളിൽ പഠിതാവിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പഠിതാവിനു നൽകുന്ന മാർഗ്ഗനിർദ്ദേശം വളരെ സഹായകരമാണ് ഡെമോൺസ്ട്രേഷൻ നടക്കുമ്പോൾ നിർണായക ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഡെമോൺസ്ട്രേഷന്റെ നിർണായക ഘടകങ്ങൾ നിരീക്ഷിക്കാനും പ്രതിഫലിപ്പിക്കാനും ഉപയോഗിക്കാനും പഠിതാക്കളെ നയിക്കാൻ ഇൻസ്ട്രകറിന് കഴിയും മുൻകാല പഠനത്തിന്റെ ഒരു മാനസിക മാതൃക ഓർമിച്ചെടുത്താൽ പോലും ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ പഠിതാക്കൾക്ക് ഡെമോൺസ്ട്രേഷന്റെ ചില നിർണ്ണായക ഘടകങ്ങൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്അതുകൊണ്ട് തന്നെ പഠിതാവിനു നൽകുന്ന മാർഗ്ഗനിർദ്ദേശം അത്യന്താപേക്ഷിതമോ പ്രസക്തമോ ആണ് ഡെമോൺസ്ട്രേഷന്റെ സമയത്തെ വിവരവും ചിത്രീകരണവും മെറിൽ വേർതിരിക്കുന്നു അടിസ്ഥാനപരമായി ബ്ലൂംസ് ടാക്സോണമിയിൽ ഇത് അർത്ഥമാക്കുന്നത് ഓർമ്മിക്കുക മനസിലാക്കുക പ്രയോഗിക്കുക എന്നീ ലെവലുകൾ ആണ് വിവരങ്ങൾ എന്നാൽ പൊതുതത്ത്വങ്ങളുടെ അവതരണമാണ് പഠിതാക്കൾക്ക് അത് ഓർമ്മിക്കാൻ കഴിയണം നിർദ്ദിഷ്ട കേസുകളിലെ പൊതുതത്ത്വങ്ങളുടെ പ്രകടനമാണ് ചിത്രീകരണം ഏതൊരു കേസിലും തത്ത്വങ്ങൾ പ്രയോഗിക്കാൻ പഠിതാക്കൾക്ക് കഴിയണം ഉള്ളടക്കത്തിന്റെ സ്വഭാവമനുസരിച്ച് വിവരത്തിലും ചിത്രീകരണത്തിലും ഇൻസ്ട്രക്ടർ പഠിതാക്കൾക്ക് ഉചിതമായ മാർഗ്ഗനിർദ്ദേശം നൽകണം ഉള്ളടക്കത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ വാചകം ഗ്രാഫിക്സ് സിമുലേഷൻ മുതലായ ഉചിതമായ പ്രസക്തമായ മാധ്യമങ്ങൾ ഉപയോഗിക്കണം ആപ്ലിക്കേഷൻ തത്വം പഠിതാക്കൾ പുതുതായി നേടിയ അറിവ് പഠിപ്പിച്ച ഉള്ളടക്കവുമായി പൊരുത്തപ്പെടുന്ന സഹചര്യത്തിൽ പ്രയോഗിക്കുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഒരിക്കൽ കൂടി ബ്ലൂംസ് ടാക്സോണമി കണക്കിലെടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട സിഒ അല്ലെങ്കിൽ യോഗ്യതയുടെ വൈജ്ഞാനികനിലയുമായി പൊരുത്തപ്പെടണം അതിനാൽ ഇത് വിശകലന തലത്തിലുള്ള ഒരു കഴിവാണെങ്കിൽ വിദ്യാർത്ഥികൾ വിശകലന തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടണംഅത് പ്രായോഗിക തലത്തിൽ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യണം മെറിലിന്റെ ആപ്ലിക്കേഷൻ തത്വം വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അത് പ്രധാനമായും ബ്ലൂം ടാക്സോണമിയിലെ അപ്ലൈ അല്ല അടിസ്ഥാനപരമായി അത് ഒരു വൈജ്ഞാനിക തലത്തിലെ ഒരു പ്രശ്നവുമായി ഇടപഴകുന്നു അത് CO യുടെ വൈജ്ഞാനിക നിലയോടോ അല്ലെങ്കിൽ യോഗ്യതയോടോ പൊരുത്തപ്പെടുന്നു പഠിതാക്കൾ അവരുടെ പുതുതായി നേടിയ അറിവ് പഠിപ്പിച്ച ഉള്ളടക്കവുമായി സാമ്യമുള്ള ഒരു പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അതിനർത്ഥം CO അല്ലെങ്കിൽ യോഗ്യതയുമായി പൊരുത്തപ്പെടുന്നു എന്നാണ് ഒരു അപ്ലിക്കേഷനിൽ നിന്ന് പഠിക്കുന്നത് ഫലപ്രദമാകുന്നത് പഠിതാക്കൾക്ക് തിരുത്തൽ ഫീഡ്ബാക്ക് ലഭിക്കുമ്പോൾ ആണ് ആപ്ലിക്കേഷനിൽ ഏർപ്പെടുമ്പോൾ പഠിതാക്കൾക്ക് തിരുത്തൽ ഫീഡ്ബാക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനമാണ് ആപ്ലിക്കേഷനിൽ നിന്ന് പഠിക്കുന്നത് സഹപാഠികളുമായുള്ള സഹകരണത്തിലൂടെ മെച്ചപ്പെടുന്നു സമപ്രായക്കാരുടെ സഹകരണം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നു മിക്കവാറും എല്ലാ ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പഠിതാക്കളെ പരിശീലിപ്പിക്കുമ്പോഴും തുടർന്നുള്ള ഓരോ ജോലികൾക്കും ഈ കോച്ചിംഗ് ക്രമേണ പിൻവലിക്കുമ്പോഴും ഒരു അപ്ലിക്കേഷനിൽ നിന്നുള്ള പഠനം മെച്ചപ്പെടുത്തുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സങ്കീർണ്ണമായ ജോലികളിലൂടെ ആണ് നമ്മൾ പുരോഗമിക്കുന്നത് പ്രാരംഭ ഘട്ടത്തിൽ കോച്ചിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായം തികച്ചും ഗണ്യമായേക്കാം എന്നാൽ പഠിതാക്കൾ കൂടുതൽ സങ്കീർണ്ണമായ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കോച്ചിംഗ് ഇൻസ്ട്രക്ടറുടെ പിന്തുണ ക്രമേണ കുറയ്ക്കുകയും പിന്നീട് പിൻവലിക്കുകയും ഒടുവിൽ പഠിതാക്കൾക്ക് അവരുടെ ചുമതലയിൽ പൂർണ്ണമായും ഇടപെടാൻ കഴിയുകയും വേണം പഠിതാക്കൾക്ക് സ്വയം ഒരു മുഴുവൻ ജോലിയും ചെയ്യാൻ കഴിയുന്നതുവരെ ഈ സൈക്കിൾ ആവർത്തിക്കുന്നു ഇത് മെറിലിന്റെ മറ്റൊരു പ്രധാന തത്വമാണ് ആപ്ലിക്കേഷൻ തത്വം പ്രകടനവും പ്രയോഗവും തമ്മിലുള്ള സമയ വിടവ് കഴിയുന്നത്ര ചെറുതായിരിക്കുമ്പോൾ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായും മെറിൽ പറയുന്നു അതിനർത്ഥം പഠിതാക്കൾ ഡെമോൺസ്ട്രേഷൻ കാണുന്നതിനാൽ കഴിയുന്നതും വേഗത്തിൽ ആപ്ലിക്കേഷനിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയണം മിക്ക ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളിലും അവഗണിക്കപ്പെടുന്ന അവസാനത്തെ പ്രധാന തത്വം സംയോജന തത്വമാണ് പഠിതാക്കൾ പുതുതായി നേടിയ അറിവിനെ അവരുടെ ആന്തരിക വൈജ്ഞാനിക ഘടനകളുമായി സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി അത് പ്രതിഫലിപ്പിക്കാനും ചർച്ചചെയ്യാനും നിർദ്ദേശിക്കപ്പെടുന്നു മിക്കപ്പോഴും ഇൻസ്ട്രക്ടർമാർ പറയാറുണ്ട് "ഇതിനെക്കുറിച്ച് ചിന്തിക്കുക" അത് ഉപേക്ഷിക്കുക എന്നിങ്ങനെ യഥാർത്ഥത്തിൽ "അതിനെക്കുറിച്ച് ചിന്തിക്കുക" എന്നത് സംയോജന തത്വമല്ലാതെ മറ്റൊന്നുമല്ല പ്രതിഫലന പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിന് ഇൻസ്ട്രക്ടറുടെ ബോധപൂർവമായ ശ്രമം ആവശ്യമാണ് പുതുതായി നേടിയ അറിവ് നിലവിലുള്ള അറിവിലേക്ക് സമന്വയിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആഴത്തിലുള്ള പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഈ അറിവ് സമന്വയിപ്പിക്കുന്നതിനും അത് അവരിൽ തന്നെ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും പഠിതാക്കൾക്ക് വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയും പഠിതാക്കൾക്ക് അവരുടെ പുതിയ അറിവ് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിലൊന്ന് അവർക്ക് ഈ പുതിയ അറിവ് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയുമ്പോൾ അത് ആപ്ലിക്കേഷനാണ് അത് അവരുടെ കൂടെ കൂടുതൽ കാലം തുടരാൻ സാധ്യതയുണ്ട് ചില നിർദ്ദിഷ്ട വിശദാംശങ്ങൾ ചിലപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓർമിക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ അവയുടെ പൊതുവായ ആപ്ലിക്കേഷൻ സന്ദർഭം എന്നെന്നും നിലനിൽക്കും സമന്വയത്തിൽ നിന്ന് പഠിക്കുന്നത് വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്ക് സ്വന്തമായി പുതുതായി നേടിയെടുത്ത അറിവ് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ സമപ്രായക്കാർ അവലോകനം ചെയ്യുമ്പോഴോ വിമർശിക്കുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴോ നമ്മൾ ഒരു അർത്ഥത്തിൽ അദ്ധ്യാപകന്റെ പങ്ക് വഹിക്കുന്നു കാരണം പഠിതാവ് ഇപ്പോൾ അവളുടെ പുതുതായി നേടിയ അറിവ് പ്രകടമാക്കുന്നു അല്ലെങ്കിൽ ചില അർത്ഥത്തിൽ ഇത് അധ്യാപകന്റെ പങ്ക് ആണ് കാരണം മിക്ക കേസുകളിലും അധ്യാപകൻ വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ പഠിക്കുന്നു അതിനാലാണ് നിങ്ങൾ ഒരു പ്രസ്താവനയെ പ്രതിരോധിക്കാൻ വാദിക്കാൻ ശ്രമിക്കുന്നത് അതിനായി ഒരു വൈദഗ്ദ്ധ്യം പ്രയോഗിക്കുക അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ആ പങ്ക് വഹിക്കുമ്പോൾ പഠനം കൂടുതൽ ശക്തമാകും പുതിയ അറിവും നൈപുണ്യവും ഉപയോഗിക്കുന്നതിനുള്ള വ്യക്തിഗത വഴികൾ പഠിതാക്കൾ സൃഷ്ടിക്കുമ്പോഴോ കണ്ടുപിടിക്കുമ്പോഴോ പര്യവേക്ഷണം ചെയ്യുമ്പോഴോ സംയോജനത്തിൽ നിന്ന് പഠനം മെച്ചപ്പെടുത്തുന്നു പുതുതായി നേടിയ അറിവ് അവർക്ക് പ്രസക്തമായ യഥാർത്ഥ സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ പഠിതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ ശക്തമായ പഠനം നടക്കുന്നു കൂടുതൽ കാലം ഈ പുതിയ അറിവ് നിലനിൽക്കുന്നു അതിനാൽ ഈ തത്ത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ വിദ്യാർത്ഥികൾ പഠിതാക്കൾ പുതുതായി നേടിയ അറിവ് നിലവിലുള്ള അറിവുമായി സമന്വയിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പഠിച്ച കാര്യങ്ങൾ നിലനിർത്താൻ ഇത് പഠിതാക്കളെ സഹായിക്കുന്നു സഹപാഠികളുമായുള്ള ചർച്ചയിലൂടെയും വിമർശനത്തിലൂടെയും പ്രതിഫലനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പഠിതാക്കൾക്ക് അവരുടെ പുതുതായി നേടിയ കഴിവ് പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ മികച്ച പ്രചോദനമാവുകയും ചെയ്യും പഠിതാക്കൾ അവർ വ്യക്തിപരമായി പുതുതായി നേടിയ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ പഠനം കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും മെറിളിന്റെ മാതൃകയെ നാല് ഘട്ടങ്ങൾ ഉള്ള ഒരു മുഴുവൻ ജോലിയും അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട യഥാർത്ഥ ടാസ്കിനെ കേന്ദ്രീകരിച്ചുള്ള പഠനം ആയി നമുക്ക് കാണാൻ കഴിയും അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ജോലികളുമായി സാമ്യമുള്ള ഒരു ടാസ്ക് ആദ്യ ഘട്ടം സജീവമാക്കൽ ആണ് അവിടെ മുൻ മാനസിക മാതൃകകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു പുതിയ വിവരങ്ങൾ സ്വീകരിക്കുന്നതിന് പഠിതാക്കളെ സജ്ജമാക്കുന്നു അടുത്ത ഘട്ടം ഡെമോൺസ്ട്രേഷൻ ആണ് അവിടെ വിദ്യാർത്ഥികൾ നേടിയെടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ട കഴിവ് ഇൻസ്ട്രക്ടർ കാണിക്കുന്നു പ്രകടനം സിഒ അല്ലെങ്കിൽ യോഗ്യതയുടെ വിജ്ഞാന പ്രക്രിയയെയും വിജ്ഞാന വിഭാഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇതിനുശേഷം പഠിതാക്കൾ അവരുടെ ചുമതലയിൽ ഏർപ്പെടുന്നു പുതുതായി നേടിയ അറിവ് ആപ്ലിക്കേഷൻ ഘട്ടത്തിൽ പ്രയോഗിക്കുന്നു അവസാനം പഠിതാക്കൾ അവരുടെ പുതിയ അറിവുകൾ അവരുടെ നിലവിലുള്ള അറിവിലേക്ക് സമന്വയിപ്പിക്കുകയും എല്ലാം ഏകീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഗ്രൂപ്പ് ചർച്ച പ്രതിഫലനം ഒരു ജേണൽ എഴുതുക എന്നിവ പോലുള്ള ഉചിതമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സുപ്രധാന സംയോജന ഘട്ടംഇത് ഈ കഴിവുകൾ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ സമയത്ത് സൂക്ഷ്മമായ "ഘടന മാർഗ്ഗനിർദ്ദേശം പരിശീലനം പ്രതിഫലനം" സൈക്കിൾ തുടരുന്നു സജീവമാക്കൽ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇൻസ്ട്രക്ടർ ഒരു ഘടനയെ ഓർമ്മിപ്പിക്കാൻ പഠിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക സഹായിക്കുകയാണ് പ്രകടന സമയത്ത് ഇൻസ്ട്രക്ടർ പ്രധാനമായും മാർഗ്ഗനിർദ്ദേശം നൽകുകയോ വിദഗ്ദ്ധന്റെ പങ്ക് വഹിക്കുകയോ ചെയ്യുന്നു ആപ്ലിക്കേഷൻ ഘട്ടത്തിൽ ഇൻസ്ട്രക്ടർ യഥാർത്ഥത്തിൽ ഒരു പരിശീലകന്റെ പങ്ക് വഹിക്കുന്നു വിദ്യാർത്ഥികളെ അവരുടെ പുതുതായി നേടിയ അറിവ് പ്രയോഗിക്കാൻ സഹായിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം കോച്ചിംഗ് ക്രമേണ പിൻവലിക്കുകയും ചെയ്യുന്നു അവസാന സംയോജന ഘട്ടത്തിൽ ഇൻസ്ട്രക്ടർ പഠിതാക്കളിൽ പ്രതിഫലനം പ്രോത്സാഹിപ്പിക്കണം നാല് ഘട്ട ഇൻസ്ട്രക്ഷണൽ സൈക്കിളിന് യഥാർത്ഥത്തിൽ "ഘടന മാർഗ്ഗനിർദ്ദേശം പരിശീലനം ഒപ്പം പ്രതിഫലനത്തിന്റെ" ഒരു സബ് സൈക്കിൾ കൂടി ഉണ്ട് ഇൻസ്ട്രക്ടർക്ക് ഈ സൂക്ഷ്മ ചക്രത്തിന്റെ മികച്ച ഗ്രാഹ്യം ഉണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൂടുതൽ ഫലപ്രദമാകും "ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക"എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന വിവരങ്ങൾ മാത്രമുള്ള ഇൻസ്ട്രക്ഷൻ വളരെ താഴ്ന്ന നിലയിലുള്ള ഇൻസ്ട്രക്ഷണൽ തന്ത്രമാണെന്ന് മെറിൽ പൊതുവെ വിശ്വസിക്കുന്നു അതായത് ഇത് വൺവേ ഫ്ലോ ആണ് കൂടാതെ അതിൽ സജീവമാക്കൽ ഘട്ടം ആപ്ലിക്കേഷൻ ഘട്ടം പ്രതിഫലന ഘട്ടം എന്നിവ ഇല്ല പഠനത്തിന്റെ ആദ്യ തത്ത്വങ്ങൾ കൂടുതൽ ഇൻസ്ട്രക്ഷണൽ തന്ത്രത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇൻസ്ട്രക്ഷണൽ തന്ത്രം ഉയർന്ന തലങ്ങളിൽ എത്തും ഉദാഹരണത്തിന് ഇൻസ്ട്രക്ഷണൽ തന്ത്രത്തിൽ സജീവമാക്കൽ ഘട്ടം ഉൾപ്പെടുന്നുവെങ്കിൽ പഠനം ഒരു ലെവൽ ഉയർന്നതായിരിക്കും ഒരു ടാസ്ക് കേന്ദ്രീകൃത തന്ത്രം അതിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ മുഴുവൻ പഠനവും ഒരു റിയലിസ്റ്റിക് ടാസ്ക്കിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് ഒരു മുഴുവൻ ടാസ്ക് അപ്പോൾ പഠനം അടുത്ത ഉയർന്ന തലത്തിലെത്തും പുതുതായി നേടിയ അറിവ് പ്രയോഗിക്കാൻ പഠിതാക്കൾക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പഠനം വീണ്ടും അടുത്ത ഉയർന്ന തലത്തിലെത്തുന്നു പഠിതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതിഫലനത്തിന്റെ ബോധപൂർവമായ പ്രമോഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഇൻസ്ട്രക്ഷണൽ തന്ത്രം ഇപ്പോഴും ഉയർന്ന തലത്തിലുള്ള തന്ത്രമായി മാറുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും ഉയർന്ന ഇൻസ്ട്രക്ഷണൽ തന്ത്രം ലഭിക്കും അതാണ് മെറിലിന്റെ തീസിസ് ഇതിനെ പിന്തുണയ്ക്കുന്നതിന് നമുക്ക് ധാരാളം അനുഭവപരമായ തെളിവുകൾ ഇല്ല എന്നാൽ അവബോധജന്യമായി ഇത് വളരെ വ്യക്തമായി കാണപ്പെടുന്നു കൂടാതെ മെറിലിന് ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പന സിദ്ധാന്തത്തിലെ വിശാലമായ അനുഭവവും വിവിധ മോഡലുകൾ ഉപയോഗിച്ചുള്ള വിശാലമായ അനുഭവവും ഉണ്ട്അത് കൊണ്ട് ഇത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട് ഇൻസ്ട്രക്ഷണൽ സാഹചര്യങ്ങളുടെ സവിശേഷതകൾ ഈ ഇഫക്റ്റുകളെ ചെറുതായി മോഡുലേറ്റ് ചെയ്യുമെങ്കിലും ഈ അഞ്ച് തത്ത്വങ്ങൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കുന്നതിലൂടെ ഇൻസ്ട്രക്ഷണൽ തന്ത്രം മികച്ചതായി മാറുന്നു എന്ന ഈ തത്ത്വചിന്ത വലിയതോതിൽ ശരിയാണ് ഒരു ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പന മാതൃക ഈ പഠനത്തിന്റെ ആദ്യത്തെ അഞ്ച് തത്ത്വങ്ങളെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് തികച്ചും ഫലപ്രദവും കാര്യക്ഷമവും ആകർഷകവുമാകാൻ സാധ്യതയുണ്ട് അത് മെറിലിന്റെ തത്വങ്ങളുടെ പിന്നിലെ പശ്ചാത്തലമാണ് അഭ്യാസം ഏതു പരിധിവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിർദേശ തന്ത്രം തന്ത്രങ്ങളിൽ നിങ്ങൾ വർഷങ്ങളായിവിവിധ കോഴ്സുകൾക്ക് ഉപയോഗിച്ച് വരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നിർദേശ തന്ത്രം തന്ത്രങ്ങൾ മെറിലിന്റെ അഞ്ച് പഠന തത്വങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നു വിലയിരുത്തുക വ്യായാമത്തിന്റെ ഫലങ്ങൾ പങ്കിട്ടതിന് നന്ദി story iisctagmail അടുത്ത യൂണിറ്റിൽ മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പന നമ്മൾ പരിശോധിക്കും പഠനത്തിന്റെ ആദ്യത്തെ അഞ്ച് തത്ത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാതൃകയായിരിക്കും ഇത് മുമ്പത്തെ യൂണിറ്റുകളിലും നമ്മൾ ഈ മോഡലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ മോഡലിനെ കുറച്ചുകൂടി വിശദമായി പര്യവേക്ഷണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും കൂടാതെ ആ മോഡലും മെറിലിന്റെ അഞ്ച് പഠന തത്വവും തമ്മിലുള്ള ബന്ധം എത്രയുണ്ട് എന്ന് പരിശോധിക്കും നന്ദി അടുത്ത യൂണിറ്റിൽ നമുക്ക് വീണ്ടും കാണാം